ഈ രണ്ടു ചിത്രങ്ങളിൽ കാണുന്നത് ട്രാൻസ്ഡ്യൂസറുകൾ ആണ് ആദ്യമായി എന്താണ് ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ട്രാൻസ്ഡ്യൂസറുകളുടെ ട്രാൻസ്ഫർ കാര്യക്ഷമത അടിസ്ഥാനപ്പെടുത്തി ഉള്ള വർഗ്ഗീകരണം നോക്കാം നമുക്ക് നിരവധി തരം ട്രാൻഡ്യൂസറുകൾ ഉണ്ട് തുടർന്ന് ട്രാൻഡ്യൂസറുകളുടെ ആട്രിബ്യൂട്ടുകൾ ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരിക്കുന്നതിന് ഉള്ള ഉപകരണങ്ങൾ തുടർന്ന് ഇലക്ട്രിക്കൽ ഇന്റർമീഡിയറ്റ് മോഡിഫൈയിംഗ് ഉപകരണങ്ങളുടെ പ്രയോജനം ഇലക്ട്രിക്കൽ ഇന്റർമീഡിയറ്റ് മോഡിഫൈയിംഗ് ഉപകരണങ്ങൾ ടെര്മിനേറ്റിംഗ് ഉപകരണങ്ങൾ ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന വിഷയങ്ങൾ ഇവയാണ് ആദ്യമായി സാമാന്യവൽക്കരിച്ച അളവെടുക്കൽ സംവിധാനത്തിൽ മൂന്ന് പ്രവർത്തന ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം പ്രൈമറി ഡിറ്റക്ടർ ട്രാൻസ്ഡ്യൂസർ ഘട്ടമാണ് ആദ്യത്തേത് തുടർന്ന് ഇന്റർമീഡിയറ്റ് മോഡിഫൈയിംഗ് സ്റ്റേജ് തുടർന്ന് ഔട്ട്പുട്ട് ഘട്ടം അതിനാൽ നമ്മൾ ഇവിടെ പ്രധാനമായും ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രതികരണം എന്താണെന്നറിയാൻ ശ്രമിക്കുന്ന ഒരു ഉപകരണമാണ് അതിനു നമുക്ക് പ്രാഥമിക ഡിറ്റക്ടർ വേണം ഈ പ്രാഥമിക ഡിറ്റക്ടർ കണ്ടെത്തുന്ന ഡാറ്റ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഇത് വായിക്കാവുന്ന ഔട്ട്പുട്ടിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ഉണ്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് എന്താണ് അതിനിടയിൽ ഒരു ഘട്ടം ഉൾപെടുത്താൻ ശ്രമിക്കുന്നു പ്രാഥമിക ഡാറ്റയെ വായിക്കാൻ കഴിയുന്ന ഔട്ട്പുട്ടായി പരിവർത്തനം ചെയ്യുന്ന ഒന്ന് ഇത് ഒരു കൺവേർട്ടിബിൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഘട്ടമാണ് ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ അളവെടുപ്പിനായി ഒരു മെക്കാനിക്കൽ അളവ് നടത്താം ഇത് മെക്കാനിക്കൽ ഡിഫ്ലക്ഷൻ ഡയൽ ഗേജ് കൊണ്ടുള്ള അളവെടുപ്പ് ആകാം നിങ്ങൾക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണ് വോൾട്ടേജിന്റെ രൂപത്തിൽ നിങ്ങൾക്കത് ആവശ്യമാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ മെഷർമെന്റ് വായിക്കാവുന്ന ഔട്ട്പുട്ടായി പരിവർത്തനം ചെയ്യണം എന്തുകൊണ്ട് ഇത് വോൾട്ടേജിലാണ് കാരണം അത് നിയന്ത്രിക്കാൻ എളുപ്പമാകും നിങ്ങൾക്ക് ഒരു കൺട്രോളർ സ്ഥാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ മോണിറ്ററിംഗ് സിസ്റ്റം വേണം പിന്നെ കൺട്രോളിങ് സിസ്റ്റം വേണം അഡാപ്റ്റീവ് കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറയാം പിന്നെ നമ്മൾ ഔട്ട്പുട്ട് ആയി നോക്കുന്നത് എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ എളുപ്പമുള്ള വോൾട്ടേജോ കറന്റോ ആണ് അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും വോൾട്ടേജിനായി നോക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ മെക്കാനിക്കൽ ഒരു ഉദാഹരണമായി വോൾട്ടേജിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇവിടെ ഒരു പീസോ ക്രിസ്റ്റൽ ഇടാൻ ശ്രമിക്കാം പീസോ ക്രിസ്റ്റൽ എന്താണ് ചെയ്യുന്നത് പീസോ ക്രിസ്റ്റൽ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു വൈദ്യുത വോൾട്ടേജാക്കി മാറ്റുന്നു അതിനാൽ ഇതൊരു ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഘട്ടമാണ് ശരി ഇവിടെ നിങ്ങൾക്ക് സർക്യൂട്ടുകൾ ഉണ്ടാകാം നിങ്ങളുടെ ഗ്രാഹ്യത്തിനായി ഞാൻ ഒരു ലളിതമായ സാമ്യത നൽകി അതിനാൽ അടിസ്ഥാനപരമായി ഒരു ട്രാൻഡ്യൂസർ അല്ലെങ്കിൽ ഒരു അളക്കൽ സിസ്റ്റത്തിനായി മൂന്ന് പ്രവർത്തന ഘടകങ്ങളുണ്ട് അതിനാൽ ഒന്ന് പ്രാഥമികമാണ് രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഘട്ടവും മൂന്നാമത്തേത് ഔട്ട്പുട്ട് ഘട്ടമോ ടെര്മിനേറ്റിംഗ് ഘട്ടമോ ആണ് ഓരോ ഘട്ടവും ചില പ്രവർത്തനങ്ങൾ നിർവ്വഹിക്കുന്നു അതിനാൽ അളക്കേണ്ട ഫിസിക്കൽ വേരിയബിളിന്റെ മൂല്യം ഔട്ട്പുട്ടായി പ്രദർശിപ്പിക്കും ദയവായി ഇതിലേക്ക് നോക്കുക അത് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അളക്കേണ്ട ഫിസിക്കൽ വേരിയബിളിന്റെ മൂല്യം ഔട്ട്പുട്ടായി പ്രദർശിപ്പിക്കും പ്രോസസ്സ് നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന അളവെടുക്കൽ സംവിധാനത്തിൽ ഫീഡ്ബാക്ക് നിയന്ത്രണ സംവിധാനം എന്ന് വിളിക്കുന്ന നാലാമത്തെ ഘട്ടം ഉൾപ്പെടുന്നു അതിനാൽ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് പ്രാഥമികവും ഇന്റർമീഡിയറ്റും ഇത് പ്രാഥമിക ഇന്റർമീഡിയറ്റ് ഘട്ടമാണ് അതിനുശേഷം നമുക്ക് ടെര്മിനേറ്റിംഗ് ഘട്ടമുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് ഘട്ടം എടുക്കാൻ ശ്രമിക്കുന്നു ഈ ഫീഡ്ബാക്ക് ഒരുപക്ഷേ അത് പ്രക്രിയയിലേക്ക് ആയിരിക്കാം ഇവിടെ പ്രക്രിയ നടക്കുന്നു നിങ്ങൾക്ക് ഇതുപോലൊന്ന് ഉണ്ട് ഇതാ പ്രക്രിയ ശരി അതിനാൽ സിസ്റ്റം നിയന്ത്രിക്കാൻ ഏത് തീരുമാനമെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അളന്ന സിഗ്നലിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണ സംവിധാനം പ്രധാനമായും പ്രവർത്തിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് പരിമിതികളാൽ അഡാപ്റ്റീവ് നിയന്ത്രണം നേടാം അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ വഴിയും ശരി ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് നൽകുന്നത് അനുസരിച്ചു പ്രോസസ്സ് മാറുന്നു അതിനാൽ പ്രക്രിയ അഡാപ്റ്റേബിൾ ആകുന്നു നിങ്ങൾ ഒരു വേരിയബിളിന് പരമാവധി പരിധി നിശചയിച്ചാൽ അതൊരു പരിമിതി ആണ് ഉദാഹരണത്തിന് ഫോഴ്സിന് 100 ന്യൂട്ടനിൽ കൂടുതൽ പോകാൻ കഴിയില്ല ഇത് ഒരു പരിമിതിയാണ് ഫോഴ്സ് കൂടാതെ ടോർക്കിനു 10 ന്യൂട്ടൺ മീറ്ററിന്റെ പരിമിതി ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് പരിമിതികളുണ്ട് അതിനാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ പരിമിതി ഫോർസ് 100 കടക്കരുതെന്നും പിന്നെ ടോർക് 10 കടക്കരുത് എന്നും നമ്മൾ പറയുന്നു ഇത് എല്ലാ 10 നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒപ്റ്റിമൈസേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പരിമിതികളിലേക്ക് നോക്കുന്നില്ല പക്ഷേ ഇത് പ്രോസസ്സ് പ്രവർത്തിക്കുന്നതിന് സുരക്ഷിതമായ ഇന്റർമീഡിയറ്റ് മൂല്യത്തിലേക്ക് നോക്കുന്നു ശരി ഇവിടെ നിങ്ങൾക്ക് ഈ അഡാപ്റ്റീവ് നിയന്ത്രണങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണ ഘട്ടം ആവശ്യമാണ് അത് ടെര്മിനേറ്റിംഗ് ഘട്ടത്തിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുക്കുന്നു തൽഫലമായി സെൻസിംഗ് വേരിയബിളിന്റെ മൂല്യത്തെ ബാധിക്കുന്ന പ്രോസസ്സ് പാരാമീറ്ററിൽ ഒരു മാറ്റമുണ്ട് കൈമാറ്റ കാര്യക്ഷമത മാഗ്നിഫിക്കേഷൻ പോലെ വളരെ പ്രധാനമാണ് ട്രാൻസ്ഡ്യൂസറുകളുടെ കാര്യത്തിൽ അളക്കുന്ന സിസ്റ്റത്തിന്റെ സെൻസറിംഗ് ഘടകം ആദ്യം അളക്കുന്ന ഗുണനിലവാരവുമായി സമ്പർക്കം പുലർത്തുകയും സംവേദനാത്മക വിവരങ്ങൾ ഉടനടി സമാനമായ രൂപത്തിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ സെൻസിംഗ് ചെയ്യുന്നു സെൻസ് ചെയ്തതിനെ നിങ്ങൾ ഒരു ഡാറ്റയാക്കി മാറ്റുക എന്നതാണ് പ്രാഥമിക ഘട്ടം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ മാഗ്നെറ്റിക് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ആയിരിക്കാവുന്ന ട്രാൻസ്ഡ്യൂസർ സംവേദനാത്മക വിവരങ്ങൾ കൂടുതൽ സൌകര്യപ്രദമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അതിലൂടെ നിങ്ങൾക്ക് ഡാറ്റ ശരിയാക്കാനും എഡിറ്റുചെയ്യാനും വിശകലനം ചെയ്യാനും കഴിയും ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഡ്യൂസർ ഇത് വളരെ പ്രധാനമാണ് ഇതാണ് ഒരു ട്രാൻസ്ഡ്യൂസറിന്റെ നിർവചനം ഒരു ട്രാൻസ്ഡ്യൂസർ എന്നത് ഒരു രൂപത്തിൽ ഉള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഉപകരണമാണ് ഇതിൽ ആദ്യത്തെ രൂപം മെക്കാനിക്കൽ ആകാം വൈദ്യുതമാകാം ഒപ്റ്റിക്കൽ ആകാം പക്ഷേ ഊർജ്ജത്തെയാണ് സെൻസ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ബാക്ക്പ്രഷർ ഉപയോഗിക്കുന്ന ഒരു ന്യൂമാറ്റിക് കൺവെർട്ടർ എന്തെങ്കിലുമൊക്കെ ചുറ്റുമുള്ള വ്യതിയാനമെന്താണെന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട് ഒരു ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഡ്യൂസർ ഇത് വളരെ പ്രധാനമാണ് ഈ പോയിന്റും വളരെ പ്രധാനമാണ് ഒരു ട്രാൻസ്ഡ്യൂസർ ഒരു രൂപത്തെ മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഈ അനുപാതമാണ് കൈമാറ്റം കാര്യക്ഷമതയ്ക്കുള്ള നിർവചനം രണ്ട് തരം ട്രാൻസ്ദയുസറുകളുണ്ട് ഒന്നിനെ പ്രാഥമിക ട്രാൻസ്ദയുസർ എന്നും മറ്റൊന്ന് ദ്വിതീയ ട്രാൻസ്ദയുസർ എന്നും വിളിക്കുന്നു സെൻസിംഗ് അല്ലെങ്കിൽ കണ്ടെത്തൽ ഘടകം ഒരു ഭൌതിക പ്രതിഭാസത്തോടോ ശാരീരിക പ്രതിഭാസത്തിലെ മാറ്റത്തോടോ പ്രതികരിക്കുക എന്നതാണ് ഈ ഘടകത്തിന്റെ പ്രവർത്തനം അതിനാൽ ഇതിനെ പ്രാഥമിക ട്രാൻസ്ഡ്യൂസർ എന്നാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ലിറ്റ്മസ് ഷീറ്റ് എടുത്ത് ഒരു ആസിഡിനുള്ളിൽ ഇടുമ്പോൾ അതിന്റെ നിറം മാറുന്നു അതിനാൽ ഈ ഘടകത്തിന്റെ പ്രവർത്തനം ഭൌതിക പ്രതിഭാസത്തോട് അല്ലെങ്കിൽ ഭൌതികപ്രതിഭാസത്തിലെ മാറ്റത്തിനോട് വർണ്ണ വ്യതിയാനങ്ങളിലൂടെ പ്രതികരിക്കുക എന്നതാണ് ഇതിനെ പ്രാഥമിക ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു സെന്സിങ്ങ് ഘട്ടത്തിലൂടെ ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ സമാനമായ വൈദ്യുത ഔട്ട്പുട്ടാക്കി മാറ്റുക എന്നതാണ് ട്രാൻസ്ഡക്ഷൻ ഭാഗത്തിന്റെ പ്രവർത്തനം അതിനാൽ ഇതിനെ സെൻസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു ഈ ഉദാഹരണത്തില് നമ്മൾ ഇവിടെ കൈകാര്യം ചെയതത് എന്താണ് പിഎച്ച് ആണ് ഇവിടെ ഇൻപുട്ട് ഇത് പിഎച്ച് അളക്കുകയും നിങ്ങൾക്ക് ആസിഡ് അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു നിറം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ഡാറ്റ നിങ്ങൾക്ക് വോൾട്ടേജ് ഡാറ്റ ആയോ അല്ലെങ്കിൽ തുടർച്ചയായ ചില ഡാറ്റ ആയോ വേണമെങ്കിൽ നമ്മൾ ഈ ഡാറ്റയെ ദ്വിതീയ ട്രാൻസ്ഡ്യൂസറായി പരിവർത്തനം ചെയ്യുന്നു ദ്വിതീയ ട്രാൻസ്ഫ്യൂസർ എന്നാൽ എന്താണ് സെൻസിംഗ് ഘട്ടത്തിൽ ലഭിച്ച ഔട്ട്പുട്ടിനെ സമാനമായ വൈദ്യുത ഔട്ട്പുട്ടാക്കി മാറ്റുക എന്നതാണ് ട്രാൻസ്ഡ്യൂസർ ഘടകത്തിന്റെ പ്രവർത്തനം ഇവിടെ ഇത് ഡിജിറ്റൽ പിഎച്ച് മീറ്റർ പോലെയാണ് നിങ്ങൾ അളക്കുന്നത് ഡിജിറ്റൽ ആണ് ഇപ്പോൾ നിങ്ങൾ ഇത് ഒരു സമാന രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഒരു അനലോഗ് ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്ന ഉപകരണത്തെ ദ്വിതീയ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു ട്രാൻസ്ഡ്യൂസറിന്റെ വർഗ്ഗീകരണം പ്രാഥമികവും ദ്വിതീയവുമാകാം ഇത് നിങ്ങൾക്ക് വ്യക്തമായോ ട്രാൻസ്ഡക്ഷൻ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവ എന്താണ് ഇൻപുട്ട് അളവ് ഒരു കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസിലേക്കും ഇൻഡക്റ്റൻസ് മൂല്യത്തിലേക്കും എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വർഗ്ഗീകരണം അതിനാൽ ഇൻപുട്ട് അളവ് എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതാണ് വർഗ്ഗീകരണത്തിന്റെ അടിസ്ഥാനം ഇന്പുട് മെക്കാനിക്കൽ ആകാം അത് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അത് കപ്പാസിറ്റൻസ് മൂല്യം റെസിസ്റ്റൻസ് മൂല്യം അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് മൂല്യം ആകാം അവയെ കപ്പാസിറ്റീവ് ട്രാൻഡ്യൂസർ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ട്രാൻഡ്യൂസർ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് പറയുന്നു ട്രാൻസ്ഫ്യൂസറുകൾ പീസോ ഇലക്ട്രിക് ആകാം ഞാൻ നിങ്ങളോട് പറഞ്ഞു പീസോ ഇലക്ട്രിക് എന്താണ് അടിസ്ഥാനമാക്കിയുള്ളത് മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റിനെ വോൾട്ടേജായി പരിവർത്തനം ചെയ്യുന്നു താപത്തെ വൈദ്യുത അടിസ്ഥാനമാക്കി മാറ്റുന്ന തെർമോ ഇലക്ട്രിക്കൽ മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് മാഗ്നെറ്റോസ്ട്രിക്റ്റീവ് അടിസ്ഥാനം പീസോയുമായി വളരെ സാമ്യമുള്ളതാണ് അത് പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അകലം ലഭിക്കുന്നു ഒപ്റ്റിക്കൽ സെൻസിംഗ് ആണ് മറ്റൊരു മാർഗ്ഗം ഇന്ന് സ്ഥാനചലനങ്ങൾ വളരെ ചെറുതാണെങ്കിൽ നാനോമീറ്ററിൽ ഈ സ്ഥാനചലനം കണ്ടെത്തുന്നതിന് ഒപ്റ്റിക്കൽ ടെക്നിക്കുകൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു അതിനാൽ ഒപ്റ്റിക്കൽ ട്രാൻസ്ഡ്യൂസറുകളും അവിടെയുണ്ട് നമുക്ക് ഒരു ബോർഡൺ ട്യൂബ് ഉപയോഗിക്കുമ്പോൾ സമ്മർദ്ദം അളക്കാൻ കഴിയുന്നു ബർഡൺ ട്യൂബ് ഞാൻ ഒരു എൽവിഡിടിയുമായി അറ്റാച്ചുചെയ്യുന്നു ഈ എൽവിഡിടി എനിക്ക് വോൾട്ടേജ് നൽകുന്നു ഇത് കൂടുതൽ പ്രോസസ്സിംഗിനായി എടുക്കുന്നു ഇവിടെ ഇൻപുട്ട് അളവ് കപ്പാസിറ്റൻസിലേക്ക് മാറ്റുന്നു സെൻസർ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ അടിസ്ഥാന തത്വം കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് ഉപയോഗിക്കുന്നു ട്രാൻഡ്യൂസറുകളെ സജീവമോ നിഷ്ക്രിയമോ ആയ രണ്ടായി തിരിക്കാം അതിനാൽ നിങ്ങൾ നിരവധി തരംതിരിവുകൾ കാണുന്നു ഒന്ന് പ്രാഥമിക ദ്വിതീയമായിരുന്നു മറ്റൊന്ന് സജീവവും നിഷ്ക്രിയവുമാണ് ഇതിനുമുമ്പ് നമ്മൾ തത്വത്തെ അടിസ്ഥാനമാക്കി കണ്ടു നിങ്ങൾക്ക് ഇതിനെ കപ്പാസിറ്റൻസ് സെൻസർ കപ്പാസിറ്റീവ് സെൻസർ എന്നും തരംതിരിക്കാം നിങ്ങൾക്ക് ഇതിനെ റെസിസ്റ്റീവ് സെൻസർ എന്ന് വിളിക്കാം കൂടാതെ സെൻസറിൽ കഴിയുന്ന ഇൻഡക്റ്റീവ് സെൻസർ എന്നും വിളിക്കാം അങ്ങനെ എന്തെങ്കിലും വിളിക്കാം അതിനാൽ വർഗ്ഗീകരണം സജീവ നിഷ്ക്രിയം കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് എന്നാകാം നിങ്ങൾക്ക് പ്രാഥമികവും ദ്വിതീയവും അങ്ങനെ ആകാം നിങ്ങൾക്ക് സജീവവും നിഷ്ക്രിയവുമായ ട്രാൻസ്ഡ്യൂസറുകൾ ഉണ്ട് സജീവ ട്രാൻസ്ഡ്യൂസറുകൾ സ്വയം സൃഷ്ടിക്കുന്ന തരമാണ് അതിൽ അവർ സ്വന്തം വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് വികസിപ്പിക്കുന്നു അവ സ്വയം സൃഷ്ടിക്കുന്ന തരമാണ് അവയുടെ സ്വന്തം ഔട്ട്പുട്ട് അവ തന്നെ വികസിപ്പിക്കുക ഒന്നുകിൽ അത് വോൾട്ടേജ് ആകാം അല്ലെങ്കിൽ അത് പ്രധാനമായും കറന്റാകാ മറ്റൊരു ഊർജ്ജസ്രോതസ്സിന്റെ സഹായം ഇല്ലാതെ തന്നെ അവ ഔട്ട്പുട്ട് തരുന്നു ഉദാഹരണം സ്ഥാനചലനത്തെ വോൾട്ടജ് ആയി പരിവർത്തിക്കുന്ന പീസോ ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസർ നിഷ്ക്രിയ ട്രാൻസ്ഡ്യൂസറുകൾ ഒരു വൈദ്യുത സ്രോതസ്സിൽ നിന്ന് കൈമാറ്റം ചെയ്യുന്നതിന് ആവശ്യമായ വൈദ്യുതി എടുക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അന്തിമ ട്രാൻസ്ഡ്യൂസർ സ്ഥാനചലനം അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ നൽകാൻ അവർ ഊർജ്ജം ഉപയോഗിക്കുന്നു മറ്റൊരു സ്രോതസ്സിൽ നിന്ന് അവക്ക് വൈദ്യുതി ലഭിക്കുന്നതിനാൽ അവയെ ബാഹ്യമായി പ്രവർത്തിക്കുന്ന ട്രാൻസ്ഡ്യൂസർ എന്നാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് റെസിസ്റ്റീവ് ടൈപ്പ് ഇൻഡക്റ്റീവ് ടൈപ്പ് കപ്പാസിറ്റീവ് ടൈപ്പ് ട്രാൻഡ്യൂസറുകൾ എന്നിവ നിഷ്ക്രിയ ട്രാൻഡ്യൂസറുകൾ ആണ് നിഷ്ക്രിയം എന്നാൽ ഊർജ്ജം ആവശ്യമാണ് സജീവം എന്നാൽ അവ സ്വയം സൃഷ്ടിക്കുന്നു സാധാരണ സജീവ ട്രാൻസ്ഡ്യൂസറും നിഷ്ക്രിയ ട്രാൻസ്ഡ്യൂസറും ഇങ്ങനെയാണ് സജീവ ട്രാൻസ്ഫ്യൂസറിൽ നിങ്ങൾക്ക് ഒരു പ്രഷർ പോർട്ട് ഉണ്ട് അതിനാൽ ഒരു സമ്മർദ്ദ വ്യത്യാസമോ സമ്മർദ്ദമോ വരുമ്പോൾ അത് അടിക്കുമ്പോൾ ഇത് ഡയഫ്രം ഇവിടെ തള്ളിവിടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നു ഈ അംഗം പീസോയെ തള്ളിവിടുന്നു ഒരു പീസോ ക്രിസ്റ്റലിന്റെ മുകളിൽ തള്ളുന്നു തുടർന്ന് ഒരു പീസോ ക്രിസ്റ്റൽ നീങ്ങുന്നു അതിനാൽ പീസോ ക്രിസ്റ്റൽ വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് സ്ഥാനചലനം അടിസ്ഥാനമാക്കി സെൻസിറ്റീവ് ആണെങ്കിൽ അത് വൈബ്രേറ്റുചെയ്യാം അല്ലെങ്കിൽ അത് നിഷ്ക്രിയമായി തുടരാം അതിന് ഒരു വശത്തെ മാത്രം സ്ഥാനചലനം ഉണ്ടാക്കാം തുടർന്ന് നമ്മൾ ഔട്ട്പുട്ട് അളക്കുന്നു ഇതാണ് അടിസ്ഥാനം ശരി പീസോ ഇലക്ട്രിക് ട്രാൻസ്ഫ്യൂസർ ഡൈനാമോമീറ്ററിലും ഉപയോഗിക്കുന്നു എല്ലാ ഫോഴ്സ് ഡൈനാമോമീറ്ററുകളിലും പീസോ ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസറുകൾ ഉപയോഗിക്കുന്നു ഒരു ഫോഴ്സ് ഡൈനാമോമീറ്ററിൽ ഫോഴ്സിനെ അടിസ്ഥാനമാക്കി ഫോഴ്സ് വിതരണം ചെയ്യുന്നു ഒരു ഫോഴ്സ് സമ്മിംഗ് ഘടകമുണ്ട് ഇതിനെ ഒരു പീസോ ക്രിസ്റ്റലുമായി അറ്റാച്ചുചെയ്തിരിക്കുന്നു ഈ പീസോ ക്രിസ്റ്റൽ ഔട്ട്പുട്ട് അളക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും രസകരമെന്നു പറയട്ടെ പീസോ ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്ന ഡൈനാമോ മീറ്ററിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഒന്നിലധികം ദിശയിൽ ഫോഴ്സ് റെക്കോർഡു ചെയ്യാനാകും അതിനാൽ ഇതൊരു ദിശാസൂചനയാണ് നിങ്ങൾക്ക് ഇത് x y ദിശയിൽ ആകാം നിങ്ങൾക്ക് ഇത് Fx ആയി ആകാം x ലെ ഫോഴ്സ് y ലെ ഫോഴ്സ് z ലെ ഫോഴ്സ് നിങ്ങൾക്ക് കോമ്പിനേഷൻ ഫോഴ്സും ഉണ്ടാകാം നിങ്ങൾക്ക് ടോർഷണൽ ഫോഴ്സും ഉണ്ടാകാം ശരി ഇവയെല്ലാം സാധ്യമാണ് ഈ തരത്തിലുള്ള സെൻസറുകളെ സജീവ സെൻസറുകൾ എന്ന് വിളിക്കുന്നു നിഷ്ക്രിയ സെൻസറുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു നിശ്ചിത ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഒരു ചലിക്കുന്ന ട്യൂബ് ഉണ്ട് അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കും അതിനാൽ ഇതാണ് നിശ്ചിത മെറ്റൽ ബ്ലോക്കുകൾ നീക്കാൻ ശ്രമിക്കുന്നത് അകത്തേക്ക് ചലിക്കുന്ന ട്യൂബ് അല്ലെങ്കിൽ ഈ ചലിക്കുന്ന ട്യൂബ് ഒരു സ്ഥാനചലനം നൽകുന്നു അപ്പോൾ ഈ ചലനത്തെ അടിസ്ഥാനമാക്കി എന്ത് സംഭവിക്കും ഒരു കപ്പാസിറ്റൻസ് ഉണ്ട് അതിനാൽ വർദ്ധനവിന്റെയും കുറവിന്റെയും ദിശ കാണാൻ കഴിയും ഇത് ഉള്ളിലേക്ക് സ്ലൈഡുചെയ്യുന്നു നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഔട്ട്പുട്ട് ഒരു കപ്പാസിറ്റൻസ് തരം ട്രാൻസ്ഡ്യൂസറാണ് അതിനാൽ ഇവിടെ നമ്മൾ ഒരു പവർ പ്രയോഗിക്കുകയും ഈ കപ്പാസിറ്റൻസ് മൂല്യം നേടുകയും ചെയ്യുന്നു അതിനാൽത്തന്നെ ഇതിനെ നിഷ്ക്രിയ ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് അനലോഗ് ട്രാൻസ്ഫ്യൂസർ ഡിജിറ്റൽ ട്രാൻസ്ഫ്യൂസർ എന്നിവയും ഉണ്ട് അനലോഗും ഡിജിറ്റലും ഡിജിറ്റൽ എന്നാൽ ഇത് ബൈനറി എന്നാണ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യതിയാനം സമയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് എന്തായാലും സമാനമായ വ്യതിയാനം ഉണ്ടാകാം അതിനാൽ ഇത് തുടർച്ചയായി വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നു അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറുകൾ അനലോഗ് ട്രാൻസ്ഡ്യൂസറിന്റെ കാര്യത്തിൽ ഇൻപുട്ട് അളവ് ഒരു അനലോഗ് ഔട്ട്പുട്ടായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇത് സമയത്തിന്റെ തുടർച്ചയായ ഒരു ഫങ്ക്ഷൻ ആണ് അത് സമയത്തിനനുസരിച്ച് തുടർച്ചയായി വ്യത്യാസപ്പെടുന്നു ഇത് അനലോഗ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഇത് പോലെ പറയാൻ കഴിയും ഇത് മൂല്യമാണ് ഇത് നിങ്ങൾ എടുക്കുന്നതെന്തും സമയമാണ് അതിനാൽ ഇതിന് ഇതു പോലെ ആകാം ഇത് അനലോഗാണ് ശരി അതിനാൽ എൽവിഡിടി സ്ട്രെയിൻ ഗേജ് തെർമോകപ്പിൽ തെർമിസ്റ്റർ എന്നിവ അനലോഗ് ട്രാൻസ്ഡ്യൂസറുകളുടെ ഉദാഹരണങ്ങളാണ് ട്രാൻസ്ഡ്യൂസർ ഇൻപുട്ട് അളവിനെ പൾസ് രൂപത്തിലുള്ള ഒരു വൈദ്യുത സിഗ്നലായി പരിവർത്തനം ചെയ്യുന്നുവെങ്കിൽ അതിനെ ഡിജിറ്റൽ എന്ന് വിളിക്കുന്നു ഇത് മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ടൈം ആണ് അതിനാൽ ഞാൻ ഇതുപോലെ പറയുന്നു ഇത് പൾസ്ഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫ്യൂസർ ആണ് ഈ രൂപങ്ങൾ സമയത്തിന്റെ തുടർച്ചയായ രൂപങ്ങളല്ല മറിച്ച് അവ വിഭിന്ന സ്വഭാവത്തിലാണ് ഉദാഹരണത്തിന് ഷാഫ്റ്റ് കോഡ് എൻകോഡർ ഒരു ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഡ്യൂസറാണ് ഷാഫ്റ്റ് എൻകോഡർ എന്താണ് ഷാഫ്റ്റ് എൻകോഡർ ഷാഫ്റ്റിന്റെ അവസാനത്തിൽ നിങ്ങൾ ഒരു എൻകോഡർ അറ്റാച്ചുചെയ്യുന്നു അതിന് ധാരാളം സ്ലോട്ടുകൾ ഉണ്ടാകും തുടർന്ന് ഒരു ബൾബ് കടന്നുപോവുകയും പിന്നീട് ഒരു ഫോട്ടോഡയോഡ് ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്യുന്നു വെളിച്ചം കടന്നുപോകുന്നു അതിനാൽ ഇത് കറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ദ്വാരം ഉണ്ട് അതിനാൽ പ്രകാശം കടന്നുപോകും അടുത്തതായി നിങ്ങൾക്ക് ഒരു മൂർച്ചയുള്ള ഭാഗമോ അന്ധമായ ഭാഗമോ ഉണ്ടാകും തുടർന്ന് നിങ്ങൾക്ക് മറ്റൊരു ദ്വാരം ഉണ്ട് അതിനാൽ ഇവിടെ സിഗ്നലുകൾ ലഭിക്കുന്നത് 1 പിന്നെ 0 1 മുകളിലേക്കും താഴേക്കും ആയിരിക്കും തുടർന്ന് അത് 0 ആയിരിക്കും തുടർന്ന് 1 മുകളിലേക്കും 0 താഴേക്കും 1 മുകളിലേക്ക് പിന്നീട് താഴ്ന്നു 0 ആകുകയും ചെയ്യും നിങ്ങൾ ഇതിലേക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെയാകാം അതിനാൽ ഇവ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറുകൾ ആണ് ഡിജിറ്റൽ അനലോഗ് ട്രാൻസ്ഫ്യൂസർ സിഗ്നൽ കൈകാര്യം ചെയ്യാൻ ധാരാളം സ്വാതന്ത്ര്യം നൽകുന്നു നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിഗ്നലിൽ ഫിൽട്ടറുകൾ ഉപയോഗിച്ചു വളരെയധികം നോയ്സ് ഒഴിവാക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾക്ക് സിഗ്നൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും എന്നാൽ ഇവിടെ സിഗ്നൽ ലഭിക്കുമ്പോൾ നമ്മൾ സിഗ്നൽ ഡിസ്ക്രീടൈസ് ചെയ്യണം നമ്മൾ ഡിസ്ക്രീടൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അടിസ്ഥാന ഡാറ്റയിലേക്ക് ധാരാളം നോയ്സ് ചേർക്കുന്നു കൂടുതൽ പ്രോസസ്സിംഗ് നടത്തുമ്പോൾ നമുക്ക് ധാരാളം വിവരങ്ങൾ നഷ്ടപ്പെടും തുടർന്ന് നമ്മൾ ഡിജിറ്റൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിരുന്നാലും ഡിജിറ്റൈസേഷൻ ആശയവിനിമയം നടത്താൻ എളുപ്പമാണ് അതിനാൽ ആളുകൾ ഡിജിറ്റൈസേഷനാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഒരിക്കൽ സിഗ്നലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണമെന്ന് അറിയണം ഇപ്പോൾ ആളുകൾ അനലോഗ് സിഗ്നൽ കൈമാറുകയും അനലോഗ് ട്രാൻസ്ഡ്യൂസറുകൾ കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ശരി ചൂട് പ്രയോഗിക്കുന്ന ഒരു അനലോഗ് ട്രാൻസ്ഡ്യൂസറാണ് ഇത് നിങ്ങൾക്ക് ഒരു തെർമോകപ്പിൽ ഉണ്ട് ഹോട്ട് ജംഗ്ഷൻ കോൾഡ് ജംഗ്ഷൻ അത് പിന്നീട് ഒരു E ഉണ്ടാക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വോൾട്ടേജ് ഉണ്ട് ഈ സിഗ്നൽ കണ്ടീഷൻ മോണിറ്ററാണ് തുടർന്ന് നമ്മൾ അനലോഗ് ഔട്ട്പുട്ട് സിഗ്നൽ നേടാൻ ശ്രമിക്കുന്നു സമയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സമാനമാണ് അതിനാൽ സമയവുമായി ബന്ധപ്പെട്ട് അനലോഗ് സിഗ്നൽ തുടർച്ചയായി റെക്കോർഡുചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഈ ഡാറ്റ റെക്കോർഡുചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് മാത്രമല്ല ഇത് സ്ക്രീനിൽ തന്നെ ഒരു പ്ലോട്ട് നൽകാനും കഴിയും ഡയറക്ട് ഇൻവെർസ് ട്രാൻഡ്യൂസർ എന്ന് വിളിക്കുന്ന മറ്റൊരു വർഗ്ഗീകരണം ഉണ്ട് ഡയറക്ട് ട്രാൻസ്ഡ്യൂസർ ഇൻവെർസ് ട്രാൻസ്ഡ്യൂസർ അളക്കുന്ന ഉപകരണം ഒരു വൈദ്യുത ഇതര വേരിയബിളിനെ വൈദ്യുത വേരിയബിളായി കണക്കാക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ ഡയറക്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് സ്ഥാനചലനം ഒരു വൈദ്യുത രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു വികിരണ താപപ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോകപ്പിൾ ഈ ഡയറക്ട് ട്രാൻസ്ഡ്യൂസറിന് ഉദാഹരണമാണ് എഫ് വോൾട്ടേജായി പരിവർത്തനം ചെയ്തു ശരി അതിനാൽ അത് ഡയറക്റ്റാണ് വൈദ്യുത അളവ് വൈദ്യുത ഇതര അളവിലേക്ക് പരിവർത്തനം ചെയ്താൽ അതിനെ വിപരീത പരിവർത്തനം എന്ന് വിളിക്കുന്നു ഞാൻ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുന്നുവെന്നും ഈ വോൾട്ടേജ് പ്രയോഗിക്കുന്നതിലൂടെ ഒരു എൽവിഡിടി നീക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക എൽവിഡിടി സിഗ്നൽ ഉപയോഗിച്ചാണ് സ്ഥാനചലനം കോർ നീങ്ങുന്നു ഈ പ്രാഥമിക ദ്വിതീയ കോയിലുകൾക്കിടയിലുള്ള ഇരുമ്പു കോർ നീങ്ങുന്നു അതിനാൽ അതിനെ ഇൻവെർസ് എന്ന് വിളിക്കുന്നു ഇൻവെർസ് ട്രാൻസ്ഡ്യൂസറിനുള്ള ഒരു ഉദാഹരണം ഒരു പീസോ ക്രിസ്റ്റലാണ് അവിടെ വോൾട്ടേജിൽ ഇൻപുട്ടായി നൽകുകയും സ്ഥാനചലനം ഔട്ട്പുട്ടായി എടുക്കുകയും ചെയ്യുന്നു അതിനാൽ എൽവിഡിടി ഒരു പീസോ ക്രിസ്റ്റലും ആകാം നമ്മൾ ധാരാളം വർഗ്ഗീകരണങ്ങൾ കണ്ടു അതിനാൽ ഞാൻ അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാം ഒന്ന് പ്രാഥമികം മറ്റൊന്ന് ദ്വിതീയം ഒന്ന് സജീവമായിരുന്നു മറ്റൊന്ന് നിഷ്ക്രിയം ഒന്ന് ഡിജിറ്റൽ മറ്റൊന്ന് അനലോഗ് അടുത്തത് ഡയറക്ട്ഉം ഇൻവേഴ്സും ഞാൻ കരുതുന്നു ഞാൻ എല്ലാ വർഗ്ഗീകരണങ്ങളും ഡയറക്ട് ഇൻഡയറക്ട് സജീവമായവ നിഷ്ക്രിയമായവ ഓ ഞാൻ അടിസ്ഥാനത്തെ പറ്റിയുള്ളത് പറഞ്ഞില്ല മറ്റൊന്ന് കപ്പാസിറ്റൻസ് അടിസ്ഥാനമാക്കിയുള്ള കപ്പാസിറ്റീവ് പിന്നീട് റെസിസ്റ്റീവ് പിന്നെ അത് ഇൻഡക്റ്റൻസാണ് ആ ഇൻഡക്റ്റൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിഷ്ക്രിയമോ സജീവമായതോ ആകാമെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ അവിടെ അത് ആ വിഭാഗത്തിലേക്ക് വരാം അതിനാൽ ഇത്തരത്തിൽ വിവിധ തരം തരംതിരിക്കലുകൾ ഉണ്ട് ട്രാൻസ്ഡ്യൂസറുകൾക്ക് ഡയറക്റ്റ് ട്രാൻഡ്യൂസറിനും ഇൻഡയറക്ട് ട്രാൻഡ്യൂസറിനുമുള്ള ഒരു ഉദാഹരണം നോക്കാം ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്താണ് ഒരു അളക്കുന്ന ഉപകരണം അളക്കുകയും വൈദ്യുതേതര മൂല്യത്തെ വൈദ്യുത മൂല്യമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസർ അത് ഒരു വൈദ്യുത സിഗ്നലിനെ നോൺ ഇലക്ട്രിക്കൽ അളവിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അതിനെ ഇൻവെർസ് സിഗ്നൽ എന്ന് വിളിക്കുന്നു ഇവിടെ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ പീസോ ക്രിസ്റ്റൽ നൽകിയിട്ടുണ്ട് അതിനാൽ ഈ പീസോ ക്രിസ്റ്റൽ നീക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻവെർസ് ഫലമുണ്ട് വോൾട്ടേജ് ഉറവിടം അതിനാൽ പീസോ ക്രിസ്റ്റൽ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു എന്താണ് ഇൻവെർസ് ഒരു വൈദ്യുത അളവ് രൂപാന്തരപ്പെടുന്നത് ആണ് ഇൻവെർസ് ഇലക്ട്രിക്കൽ അളവ് സ്ഥാനചലനമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അതിനെ ഇൻവെർസ് എന്ന് വിളിക്കുന്നു അപ്പോൾ അളക്കുന്ന ഉപകരണത്തിന് വൈദ്യുതേതര മൂല്യങ്ങളെ വൈദ്യുത സിഗ്നലായി മാറ്റാൻ കഴിയും അതാണ് ഡയറക്റ്റ് അതിനാൽ ഇത് ഡയറക്റ്റ് ആണ് ഇവിടെ ഇത് ഇലക്ട്രിക്കലിനെ വൈദ്യുതേതര ഡിസ്പ്ലേസ്മെന്റ് ആക്കുന്നു അല്ലേ അതിനാൽ ഇതിനെ ഇൻവെർസ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കുന്നു ഡയറക്റ്റ് ഇൻവെർസ് ട്രാൻസ്ഡ്യൂസറുകൾ ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരു റഫറൻസ് സിഗ്നൽ ഉണ്ട് അത് ഇൻപുട്ടായി നൽകിയിരിക്കുന്നു ശരി നിങ്ങൾക്ക് ഒരു കമ്പാരേറ്റർ ഉണ്ട് നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ആംപ്ലിഫയർ ഉണ്ട് ഇത് ആംപ്ലിഫയ് ചെയ്യുകയും തുടർന്ന് അത് റെക്കോർഡുചെയ്തതെന്തും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ ആക്ചുവേഷൻ സംഭവിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒരു നിയന്ത്രിത ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി സിഗ്നൽ ഉണ്ട് അത് പുറത്തുവരുന്നു അതിനാൽ ആക്ചുവേഷനെ അടിസ്ഥാനമാക്കി എനിക്ക് ആക്ച്വേഷന്റെ സ്ഥാനചലനം അളക്കാൻ കഴിയും ഇത് ഒരു ട്രാൻസ്ഡ്യൂസറാണ് ഈ സിഗ്നൽ നൽകുകയും പിന്നീട് അത് താരതമ്യം ചെയ്യുകയും റഫറൻസ് സിഗ്നൽ നൽകുകയും ചെയ്യുന്നു ഇലക്ട്രിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ സിഗ്നൽ ഈ ദിശയിലേക്ക് പോകുന്നു മെക്കാനിക്കൽ വിപരീത ദിശയിൽ വരുന്നു ട്രാൻസ്ഫ്യൂസറിന് ശേഷം നിങ്ങൾക്ക് ഒരു വൈദ്യുത സിഗ്നൽ ഉണ്ട് അതിനാൽ ഈ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ എളുപ്പത്തിൽ താരതമ്യം ചെയ്യാനും നിങ്ങൾക്ക് ആരംഭിക്കാനും കഴിയും അതിനാൽ ഇത് ഒരു നേരിട്ടുള്ള ട്രാൻസ്ഡ്യൂസറാണ് ഇലക്ട്രിക്കൽ അല്ലാത്തവയെ വൈദ്യുതമാക്കി മാറ്റുന്നു നിങ്ങൾ ഇൻവെർസ് എടുക്കുകയാണെങ്കിൽ സ്കീമാറ്റിക് ഡയഗ്രം ഇതുപോലെ പോകുന്നു റഫറൻസ് ഇൻപുട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി സ്ഥാനചലനം ഇവിടെ നൽകിയിരിക്കുന്നു തുടർന്ന് ട്രാൻസ്ഡ്യൂസർ നെറ്റ്വർക്ക് ആംപ്ലിഫയ് ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അളന്ന അളവ് ഔട്ട്പുട്ട് ആയി ലഭിക്കും നമുക്ക് ഒരു വൈദ്യുത സിഗ്നൽ ലഭിക്കും ഇത് ട്രാൻസ്ഡ്യൂസർ ആണ് ഇത് ഇൻവെർസ് ട്രാൻസ്ഫ്യൂസറാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ സിഗ്നൽ ലഭിക്കും ഇത് താരതമ്യം ചെയ്യുകയും അടുത്ത സെറ്റ് സിഗ്നൽ തുടരുകയും ചെയ്യുന്നു ഡയറക്റ്റ് ട്രാൻസ്ഡ്യൂസറിനെക്കുറിച്ചും ഇൻഡയറക്ട് അല്ലെങ്കിൽ ഇൻവെർസ് ട്രാൻസ്ഡ്യൂസറിനെക്കുറിച്ചോ സംസാരിക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ സ്കീമമാറ്റിക് ഡയഗ്രമാണ് ഇത് ശരി അപ്പോൾ നിങ്ങൾക്ക് നൾ ഡിഫ്ളെക്ഷൻ എന്നീ തരം ട്രാൻസ്ഡ്യൂസറുകൾ ഉണ്ട് നൾ തരത്തിൽ ഉള്ള കമ്പാരേറ്റർ നമ്മൾ കണ്ടു അളന്ന അളവിൽ ജനറേറ്റുചെയ്തതിനെ എതിർക്കുന്ന ഉചിതമായ അറിയപ്പെടുന്ന ഒരു ഇഫക്റ്റ് പ്രയോഗിച്ചുകൊണ്ട് 0 വ്യതിചലനം നിലനിർത്തുക എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നൾ ടൈപ്പ് ഉപകരണവും നിങ്ങൾക്ക് നേടാനാകും ഇത് എല്ലായ്പ്പോഴും 0 ൽ ആയിരിക്കും നിങ്ങൾ അളന്ന മൂല്യം നൽകാൻ ശ്രമിക്കുക അത് ഉടൻ തന്നെ സ്ഥാനചലനം കാണിക്കുകയും സ്ഥാനചലനത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് ബലം പ്രയോഗിച്ച് 0 ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു 0 ലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എത്രമാത്രം ബലം പ്രയോഗിച്ചുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമോ അത് നമുക്ക് അളക്കാൻ കഴിയും അത് വെച്ച് നമ്മൾ കുറച്ച് വിവരങ്ങൾ നേടാൻ ശ്രമിക്കുന്നു 0 നിലനിർത്തുക എന്ന തത്വത്തിൽ ആണ് ഒരു നൾ ടൈപ്പ് ഉപകരണം പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ഒരു പോയിന്റർ ഉണ്ടെങ്കിൽ ഇത് ഈ പോയിന്റർ ചില ഉപകരണത്തിന് മുന്നിൽ സൂക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നു ശരി അത് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഞാൻ ബലം പ്രയോഗിച്ച് മധ്യ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കൂടാതെ കേന്ദ്ര സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ പ്രയോഗിച്ച ശക്തി എന്താണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഞാൻ അറിയപ്പെടുന്ന അളവിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു അളന്ന അളവ് സൃഷ്ടിക്കുന്നതിനെ എതിർക്കുന്ന ഉചിതമായ അറിയപ്പെടുന്ന ഒരു ഇഫക്റ്റ് പ്രയോഗിച്ചുകൊണ്ട് 0 വ്യതിചലനം നിലനിർത്തുക എന്ന തത്വത്തിൽ നൾ തരം ഉപകരണം പ്രവർത്തിക്കുന്നു സംഖ്യാ മൂല്യം നിർണ്ണയിക്കുന്നതിന് 0 ലെവലിൽ വ്യതിചലനം സന്തുലിതമാക്കേണ്ടത് ആവശ്യമാണ് എന്നതിനാൽ വിപരീത ഫലത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതിനാൽ ഈ പോയിന്റ് തിരികെ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനമാണ് ഈ രീതിയുടെ പ്രധാന പോരായ്മ ഇത് ചലനാത്മക അളവെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് എന്തുകൊണ്ട് ചലനാത്മക അളവ് സ്റ്റാറ്റിക് മെഷർമെന്റ് ഡൈനാമിക് മെഷർമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ട് സ്റ്റാറ്റിക് മെഷർമെന്റ് എന്നാൽ നിങ്ങൾ പരമാവധി മൂല്യം രേഖപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചലനാത്മകമെന്നാൽ സമയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം എങ്ങനെ മാറുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ഉപകരണം ഉണ്ടായിരിക്കണം അത് വളരെ സെൻസിറ്റീവ് ആയിരിക്കണം അതിനു എല്ലാ വ്യതിചലനങ്ങളും എല്ലാ പ്രതികരണങ്ങളും അളക്കാൻ കഴിയണം ശരിയല്ലേ അതിനാൽ ഈ നൾ ടൈപ്പിന്റെ പ്രധാന പോരായ്മ ഇത് ചലനാത്മക അളവെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഞാൻ ബലം അളക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ചലനാത്മക അളവെടുപ്പ് നടത്താൻ ശ്രമിക്കും പഴയ കാലങ്ങളിൽ ഞങ്ങൾ അത് ഡയൽ ഗേജ് ഉപയോഗിച്ച് പരമാവധി ബലം അളക്കൽ മാത്രമാണ് സാധ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ മെഷീനിംഗ് പ്രക്രിയയിൽ ഈ ചലനാത്മക അളവ് ഉള്ളപ്പോൾ വ്യത്യസ്ത സ്ഥിതിവിവരക്കണക്കുകൾ കണ്ടെത്താൻ നമുക്ക് കഴിയും ഉപകരണവും വർക്ക്പീസും തമ്മിലുള്ള ഇടപെടൽ എന്താണ് ചലനാത്മക അളവ് വളരെ പ്രധാനമാണ് നൾ റ്റൈപ് ട്രാൻസ്ഡ്യൂസറിനുള്ള ഉദാഹരണങ്ങൾ ആണ് ഡെഡ് വെയ്റ്റ് പ്രഷർ ഗേജുകൾ ആം ഈക്വൽ ആം ബാലൻസുകൾ arm equal arm balances എന്നിവ നൾ ടൈപ്പ് ഉപകരണത്തിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളാണിവ 0 വ്യതിചലനം നിലനിർത്തുക എന്ന തത്വത്തിൽ നൾ ടൈപ്പ് ഉപകരണം പ്രവർത്തിക്കുന്നു വ്യതിചലന തരം ട്രാൻസ്ഡ്യൂസർ പ്രവർത്തിക്കുന്ന തത്വം എന്തെന്നാൽ അളക്കുന്ന അളവ് ഒരു ഭൌതിക പ്രഭാവം സൃഷ്ടിക്കുന്നു ഇത് അളക്കുന്ന ഉപകരണത്തിന്റെ ചില ഭാഗങ്ങളിൽ വിപരീത ദിശയിൽ സമാനമായ പ്രഭാവം ഉത്തേജിപ്പിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു അളക്കുന്ന അളവ് അത് സ്ഥാനചലനത്തിന്റെ അളവാകാം ഒരു ഭൌതിക പ്രഭാവം സൃഷ്ടിക്കുന്നു ഇത് അളക്കുന്ന ഉപകരണത്തിന്റെ ചില ഭാഗങ്ങളിൽ വിപരീത ദിശയിൽ സമാനമായ പ്രഭാവം ഉത്തേജിപ്പിക്കുന്നു അളന്ന അളവിന്റെ തത്വം താപനില ഒരു സാധാരണ പ്രഭാവം ഉണ്ടാക്കുന്നു ഒരു തെർമോകപ്പിൽ കൊണ്ട് എതിർദിശയിൽ അളക്കുന്നതിനു സമാനമായ ഫലം ഉപകരണത്തിന്റെ ചില ഭാഗത്ത് ഉണ്ടാക്കുന്നു ഒരു ബാലൻസ് പുനസ്ഥാപിക്കുന്നതുവരെ വിപരീത ഫലത്തിൽ വർദ്ധനവുണ്ടാകും തുടർന്ന് വ്യതിചലനത്തിന്റെ അളവ് നടത്തുന്നു ഉദാഹരണത്തിന് ഒരു സ്പ്രിംഗ് ബാലൻസ് ഒരു സ്പ്രിംഗ് ബാലൻസിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലായ്പ്പോഴും അത് 0 എന്ന സ്ഥാനത്താണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒരു ഭാരം വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ അതിൽ ഒരു ഭാരം ഇടുന്ന നിമിഷം സ്പ്രിംഗ് നീണ്ടു വരാൻ ശ്രമിക്കുന്നു ശരി അത് സ്ട്രെച് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ വിപരീത ഫലത്തിൽ വർദ്ധനവുണ്ടാകും കാരണം സാധാരണയായി ഇത് ഒരു കംപ്രസ്സ് ചെയ്ത സ്ഥാനത്ത് ആയിരിക്കും നിങ്ങൾ ഒരു ഭാരം വച്ചുകഴിഞ്ഞാൽ അത് നീണ്ട സ്ഥാനത്താണ് ഒരു ബാലൻസ് പുനസ്ഥാപിക്കുന്നതുവരെ ആ ഘട്ടത്തിലാണ് വ്യതിചലനത്തിന്റെ അളവ് എടുക്കുന്നത് നിങ്ങൾ പ്രയോഗിക്കുന്ന ഏത് ലോഡും പരമാവധി സ്ഥാനചലനം സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നു അതിനാൽ ഈ വ്യതിചലന തരം ട്രാൻസ്ഫ്യൂസർ ലളിതമായ ഉദാഹരണമാണ് സ്പ്രിംഗ് ബാലൻസ് സ്പ്രിംഗ് ബാലൻസ് എങ്ങനെ ആണ് ഒരു ഹുക്ക് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു സ്പ്രിങ്ങുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഒരു ഹുക്ക് ഉണ്ട് ഈ ഹുക്ക് ഗ്രൌട്ട് ചെയ്തതിനുശേഷം നിങ്ങൾക്ക് അളവ് രേഖപ്പെടുത്താൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റർ ഉണ്ട് നിങ്ങൾ ഭാരം പ്രയോഗിക്കുമ്പോൾ ഈ കാണുന്നത് മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു അതിനാൽ ഒരു ഘട്ടത്തിൽ ഒരു ബാലൻസ് പുനസ്ഥാപിക്കുന്നതുവരെ വിപരീത ഫലത്തിൽ വർദ്ധനവുണ്ടാകും ആ ഘട്ടത്തിലാണ് വ്യതിചലനത്തിന്റെ അളവ് എടുക്കുന്നത് ലളിതമായ ഉദാഹരണം സ്പ്രിംഗ് ഗേജ് ആണ് അതിനാൽ നൾ ടൈപ്പും വ്യതിചലന ടൈപ്പും നമ്മൾ കണ്ടു നൾ ടൈപ്പ് ഇത് 0 ലേക്ക് കൊണ്ടുവരുന്നു ഇത് മറ്റേ തരത്തിൽ ഉള്ളതാണ് ട്രാൻസ്ഡ്യൂസറുകൾക്കുള്ള ഗുണനിലവാര ആട്രിബ്യൂട്ടുകൾ ഏത് സെൻസറിനെയും പോലെ ഇത് ആവർത്തനക്ഷമതയാണ് ട്രാൻസ്ഡ്യൂസറിന് ഉയർന്ന അളവിലുള്ള കൃത്യത ഉണ്ടായിരിക്കണം പിന്നെ രേഖീയത നിർദ്ദിഷ്ട ഓപ്പറേറ്റിംഗ് ശ്രേണിയിൽ ഇതിന് വളരെ ഉയർന്ന രേഖീയത ഉണ്ടായിരിക്കണം അതിനുശേഷം അതും ചലനാത്മകമായിരിക്കണം അതിനർത്ഥം ഏതെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ അത് തൽക്ഷണം എടുക്കണം ഇതിന് ലോഡിംഗ് ഇഫക്റ്റ് എലിമിനേഷന് ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസും കുറഞ്ഞ ഔട്ട്പുട്ട് ഇംപെഡൻസും ഉണ്ടായിരിക്കണം ഈ ഭാഗവും വളരെ പ്രധാനമാണ് ഇതിന് വളരെ ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസും കുറഞ്ഞ ഔട്ട്പുട്ട് ഇംപെഡൻസും ഉണ്ടാകും അത് ലോഡിംഗ് ഇഫക്റ്റ് എടുക്കുന്നില്ല മികച്ച കൃത്യത നല്കാൻ ഇവയ്ക്ക് ഉയർന്ന റെസല്യൂഷനുകൾ ആവശ്യമാണ് എന്നിട്ട് വലുപ്പം ട്രാൻസ്ഡ്യൂസർ വലുപ്പം കഴിയുന്നത്ര ചെറുതായിരിക്കണം ഹിസ്റ്റെറിസിസ് കുറവായിരിക്കണം അല്ലെങ്കിൽ തീരെ ഉണ്ടാകരുത് ഹിസ്റ്റെറിസിസ് എന്താണ് ഉദാഹരണത്തിന് ഇത് വോൾട്ടേജും വേഴ്സസ് സമയവുമാണ് അതിനാൽ നിങ്ങൾ അൺലോഡുചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ലോഡു ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പാതയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അതിനാൽ ഇതിനെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് വിളിക്കുന്നു ഇത് കഴിയുന്നത്ര കുറഞ്ഞതായിരിക്കണം പിന്നെ കരുത്തുറ്റതാവണം ഇതിന് മർദ്ദം വൈബ്രേഷൻ ഷോക്ക് എന്നിവ സഹിക്കാൻ കഴിയണം ഒപ്പം പരുക്കൻ രീതിയിലും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഗുണമായിരിക്കണം ഒപ്പം പൊരുത്തപ്പെടുത്തലും വിനാശകരമായ അന്തരീക്ഷത്തിലോ ദ്രവിക്കുന്ന അന്തരീക്ഷത്തിലോ പ്രവർത്തിക്കാൻ ട്രാൻസ്ഡ്യൂസറിന് കഴിവുണ്ടായിരിക്കണം ശരി ട്രാൻസ്ഡ്യൂസറിന് ഉണ്ടായിരിക്കേണ്ട ചില ആട്രിബ്യൂട്ടുകൾ ഇവയാണ് ഇപ്പോൾ നമ്മൾ പ്രാഥമിക ഭാഗം കണ്ടു ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകും അത് ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഉപകരണമാണ് അതിനാൽ ഇവിടെ കൈനിമാറ്റിക് രേഖീയത വളരെ പ്രധാനമാണ് ഒരു ലിങ്കേജ് സിസ്റ്റം ഒരു മെക്കാനിക്കൽ ആംപ്ലിഫയറായി ഉപയോഗിക്കേണ്ടിവരുമ്പോൾ അത് രൂപകൽപ്പന ചെയ്യേണ്ടത് ചെറിയ ആംപ്ലിഫിക്കേഷൻ നൽകുന്ന രീതിയിലാണ് ഇത് അതിന്റെ മുഴുവൻ ഔട്ട്പുട്ടിന്റെയും നേട്ടം എന്ന് വിളിക്കപ്പെടുന്നു ഒരു മെക്കാനിക്കൽ ആംപ്ലിഫയറായി ഒരു ലിങ്കേജ് സിസ്റ്റം ഉപയോഗിക്കുന്നു നോക്കൂ ഈ ഇലക്ട്രിക്കൽ വരുന്നതിനുമുമ്പ് ആളുകൾ മെക്കാനിക്കൽ ആംപ്ലിഫയറുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾ പഴയ ഡയൽ ഗേജ് കാണുകയാണെങ്കിൽ ധാരാളം ഗിയറുകളുണ്ടെന്ന് കണ്ടാൽ ഈ ഗിയറുകൾ അടിസ്ഥാനപരമായി ആംപ്ലിഫിക്കേഷനായി ഉപയോഗിക്കുന്നു മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷൻ ഒരേ ആംപ്ലിഫിക്കേഷൻ നൽകുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്യേണ്ടത് ഇത് ഔട്ട്പുട്ടിന്റെ മുഴുവൻ ശ്രേണിയിലും നേട്ടം എന്ന് വിളിക്കപ്പെടുന്നു നേട്ടം രേഖീയമായിരിക്കണം അല്ലെങ്കിൽ അത് മോശം ആംപ്ലിഫിക്കേഷന് കാരണമാകും അതിനാലാണ് എല്ലാ സെൻസറുകളിലും ട്രാൻസ്ഡ്യൂസറുകളിലും നിങ്ങൾ കാണുന്നത് ഒരു പ്രവർത്തന പരിധി എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തന പരിധി വ്യക്തമാക്കുന്നത് കാരണം ആ പ്രവർത്തന പരിധിക്കുള്ളിൽ ഒരു രേഖീയ പ്രതികരണമുണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് രേഖീയ പ്രതികരണം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ഗണിത സമവാക്യം എഴുതാനും ഒരു പിശക് പദവുമില്ലാതെ y x പാരാമീറ്റർ ക്രോസ് കോറിലേറ്റ് ചെയ്യാനും ശ്രമിക്കാം രേഖീയതയും നേർരേഖാ സ്റ്റൈലസ് ചലനവും ഉറപ്പു വരുത്തുന്നതിന് ശരിയായ കൈനമാറ്റിക് ലേയൌട്ട് അറിയേണ്ടത് അത്യാവശ്യമാണ് ലിങ്ക് അളവിലും നിശ്ചിത പോയിന്റ് സ്ഥാനത്തിലും ടോളറൻസ് നിയന്ത്രിക്കുന്നതിന് അധിക പ്രാധാന്യം നൽകണം ഞാൻ ഗിയറുകളുടെ ഒരു ഉദാഹരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നിങ്ങൾക്ക് ലിങ്ക് ചലനം സ്ഥിരമായി വേണമെങ്കിൽ അത് സാധ്യമാണ് ഒരു ഘട്ടത്തിൽ പിവറ്റു ചെയ്തതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് വലുതാക്കാൻ ശ്രമിക്കുക ഒരു പെന്റഗ്രാം പോലുള്ള ഉദാഹരണം ഒരു പെന്റഗ്രാമിൽ ലിങ്ക് അളവുകൾ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സ്ഥാനചലനം വലുതാക്കാനാകും മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷൻ ഇത്തരത്തിൽ നിർവചിച്ചിരിക്കുന്നു മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഘർഷണ ലോഡിംഗ് നിഷ്ക്രിയ ലോഡിംഗ് ഇലാസ്റ്റിക് രൂപഭേദം ബാക്ക്ലാഷുകൾ എന്നിവ പിശകിന് കാരണമാകുന്നു നിഷ്ക്രിയ ലോഡിംഗിന്റെ ഫലമായുണ്ടാകുന്ന പിശകും ഇലാസ്റ്റിക് രൂപഭേദം സിസ്റ്റമാറ്റിക് പിശകായി തരംതിരിക്കാം എന്താണ് സിസ്റ്റമാറ്റിക് പിശക് ഈ പിശകുകൾ സ്ഥിരതയുള്ളതും മെക്കാനിക്കൽ തേയ്മാനം മൂലം സിസ്റ്റമാറ്റിക് പിശക് സംഭവിക്കുന്നു അതിനാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പ്രതികരണം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാമെങ്കിൽ അതിനനുസരിച്ച് തിരുത്തൽ ഘടകം നൽകാം സിസ്റ്റമാറ്റിക് പിശക് മറ്റ് ഒന്നുമല്ല എന്നാൽ നിങ്ങൾ കൃത്യതയിലേക്കും സുനിശ്ചിതതയിലേക്കും തിരിച്ചുപോയാൽ ആരെങ്കിലും ഈ സമയത്ത് എല്ലാ ബുള്ളറ്റുകളും ഈ ബിന്ദുവിൽ കൊള്ളിക്കുന്നെങ്കിൽ അവ വളരെ കൃത്യമാണ് പക്ഷേ അവ കേന്ദ്ര പോയിന്റിൽ നിന്ന് മാറിയാണ് നിങ്ങൾക്ക് ഒരു തിരുത്തൽ സിസ്റ്റമാറ്റിക് തിരുത്തൽ നൽകാം തുടർന്ന് ഇത് ഈ സ്ഥാനത്തേക്ക് നീക്കുക ശരി അതിനാൽ നിഷ്ക്രിയ ലോഡിംഗിൽ നിന്നും ഇലാസ്റ്റിക് രൂപഭേദം മൂലം ഉണ്ടാകുന്ന പിശകും സിസ്റ്റമാറ്റിക് പിശകായി വർഗ്ഗീകരിക്കാം ഘർഷണ ലോഡിംഗിൽ നിന്നും ബാക്ക്ലാഷിൽ നിന്നുമുള്ളവ ക്രമരഹിതമായ പിശകാണ് ഘർഷണ ലോഡിംഗും ബാക്ക്ലാഷും ക്രമരഹിതമായ പിശകാണ് ഇത് ഒരു നിശ്ചിത കാലയളവിൽ സംഭവിക്കുന്നു എന്നാൽ ഘർഷണ ലോഡിംഗും ബാക്ക്ലാഷ് പിശകും പ്രവചിക്കാൻ വളരെ പ്രയാസമാണ് പ്രതിഫലിച്ച ഘർഷണ ആംപ്ലിഫിക്കേഷൻ ലിങ്കേജിലെ ഏതെങ്കിലും ഘർഷണത്തിന്റെ ഉറവിടം എത്ര ചെറുതാണെങ്കിലും ഉണ്ടാകും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ലിങ്കേജുകളെല്ലാം പീസോ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ ഇവിടെ ഒരു പീസോ ക്രിസ്റ്റൽ ഉണ്ട് പീസോ ക്രിസ്റ്റലിൽ സ്ഥാനചലനം സംഭവിക്കുന്നു നിങ്ങൾക്ക് പീസോ ക്രിസ്റ്റൽ സ്റ്റാക്കുചെയ്യാം നിങ്ങൾക്ക് സ്ഥാനചലനം ആംപ്ലിഫൈ ചെയ്യാൻ കഴിയും അതിനാൽ ഞങ്ങൾ മെക്കാനിക്കൽ ആംപ്ലിഫിക്കേഷനിൽ നിന്ന് ഇലക്ട്രിക്കൽ ആംപ്ലിഫിക്കേഷനിലേക്ക് നീങ്ങുന്നു ലിങ്കേജിലെ ഏതെങ്കിലും ഘർഷണത്തിന്റെ ഉറവിടം എത്ര ചെറുതാണെങ്കിലും ഒരു ശക്തിക്ക് കാരണമാകുകയും അത് അവരുടെ നേട്ടത്തിന് തുല്യമായ അളവിൽ ആംപ്ലിഫൈ ചെയ്യും ശരി ലിങ്കേജിലെ ചെറിയ ചലനം പോലും വലുതാക്കുന്നു അതാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ ആംപ്ലിഫൈഡ് ഫോഴ്സ് ഇൻപുട്ടിലേക്ക് മാഗ്നിഫൈഡ് ലോഡായി പ്രതിഫലിക്കുന്നു ഇത് ഘർഷണത്തിന്റെ ഉറവിടവും ഇൻപുട്ടും തമ്മിലുള്ള നേട്ടത്തിന് സാംഖികമായി തുല്യമാണ് അതിനാൽ ഈ ഇഫക്റ്റിനെ പ്രതിഫലിച്ച ഘർഷണ ആംപ്ലിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു ഇതിനെ ഇങ്ങനെ രേഖപ്പെടുത്താം FtirAFir പ്രതിഫലിച്ച ഘർഷണ ആംപ്ലിഫിക്കേഷൻ എന്നാൽ ഇതാണ് ബാക്ക്ലാഷ് ഇലാസ്റ്റിക് രൂപഭേദം എന്നിവയുടെ വർദ്ധനവ് ഇതും വളരെ പ്രധാനമാണ് ലിങ്കേജ് സിസ്റ്റത്തിലെ താൽക്കാലിക തടസ്സമില്ലാത്തതിന്റെ അനന്തരഫലങ്ങളാണ് ബാക്ക്ലാഷ് ലിങ്കേജ് സിസ്റ്റത്തിൽ ഒരു താൽക്കാലിക തടസ്സമില്ലാത്തതിന്റെ അനന്തരഫലമാണ് ബാക്ക്ലാഷ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് ഗിയറുകളുണ്ടെങ്കിൽ അവ പരസ്പരം കൂടിച്ചേരുന്നു ഈ ഗിയറുകൾ തേയുന്ന അതിനാൽ നിങ്ങൾ മുന്നോട്ടുള്ള ദിശയിലേക്ക് നീങ്ങുമ്പോൾ അത് നീങ്ങും നിങ്ങൾ 10 റൌണ്ട് പോകുമ്പോൾ അത് 10 മില്ലീമീറ്ററിലേക്ക് നീങ്ങാം നിങ്ങൾ വിപരീത ദിശയിൽ 10 റൌണ്ട് വരുമ്പോൾ ഇത് 9 5 മില്ലിമീറ്റർ മാത്രമേ പോകൂ അതിനാൽ അവിടെയുള്ള വ്യത്യാസത്തെ ഒരു ബാക്ക്ലാഷ് എന്ന് വിളിക്കുന്നു അതുപോലെ നമുക്ക് ഈ ലിങ്കേജുകൾ ഉണ്ടെങ്കിൽ ഈ തിരിച്ചടിയും സംഭവിക്കുന്നു അതിനാൽ ലിങ്കേജ് സിസ്റ്റത്തിൽ ഒരു താൽക്കാലിക തടസ്സമില്ലാത്തതിന്റെ അനന്തരഫലങ്ങളാണ് ബാക്ക്ലാഷ് ഔട്ട്പുട്ടിൽ ബാക്ക്ലാഷും ഇലാസ്റ്റിക് വികലവും ചലനനഷ്ടത്തിന് കാരണമാകുന്നു ഇത് ഔട്ട്പുട്ടിലെ ഉറവിടങ്ങൾ തമ്മിലുള്ള നേട്ടത്തിന് തുല്യമായ അളവിൽ ആംപ്ലിഫൈ ചെയ്യും അതിനാൽ ഇതും ആംപ്ലിഫൈ ചെയ്യും അതിനാൽ ചലനനഷ്ടം യഥാർത്ഥ ബാക്ക്ലാഷ് അല്ലെങ്കിൽ ഡീഫൊർമേഷൻ ഉറവിടവും ഔട്ട്പുട്ടും തമ്മിലുള്ള നേട്ടത്താൽ ഗുണിക്കുന്നതിനു തുല്യമാണ് അതിനാൽ ഈ രണ്ട് ഇഫക്റ്റുകളെ ബാക്ക്ലാഷ് ആംപ്ലിഫിക്കേഷൻ ഇലാസ്റ്റിക് ആംപ്ലിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ചലനനഷ്ടം യഥാർത്ഥ ബാക്ക്ലാഷിന് തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഉറവിടവും ഔട്ട്പുട്ടും തമ്മിലുള്ള നഷ്ടപ്പെട്ട ചലനമായിരിക്കും അത് ബാക്ക്ലാഷ് കാരണം തമ്മിലുള്ള മൊത്തം പ്രതീക്ഷിത സ്ഥാനചലന നഷ്ടം ഇപ്രകാരം നൽകിയിരിക്കുന്നു YtelAYel ഔട്ട്പുട്ടിലെ മൊത്തം പ്രൊജക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് നഷ്ടം ഇലാസ്റ്റിക് രൂപഭേദം മൂലമാണെന്ന് കരുതുക ഒരാൾക്ക് സമവാക്യം എഴുതാം YpdlYtblYtelAYblAYel ബാക്ക്ലാഷ് ഇലാസ്റ്റിക് എന്നിവ കാരണം ഇവയെല്ലാം നഷ്ടമാണ് ഇവിടെ സ്വാധീനിക്കുന്ന ഒരു നേട്ടവുമുണ്ട് അതിനാൽ അതിന്റെ സ്വാധീനം എന്താണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണ ഉപകരണത്തിലെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ടോളറൻസ് പ്രശ്നം ഉണ്ടാകും ഏതൊരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെയും അന്തർലീനമായ പ്രശ്നങ്ങളിലൊന്ന് ഉൽപ്പാദന പിശകുകൾ പരിഹരിക്കുന്നതിന് നൽകേണ്ട ഡൈമെൻഷണൽ ടോളറൻസിലെ ആപേക്ഷിക ചലനം ഉൾക്കൊള്ളുന്നു അതിനാൽ ടോളറൻസ് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് കൂടാതെ ഈ ടോളറൻസ് അനിവാര്യമാണ് കാരണം ലൂബ്രിക്കന്റിന് ഇടം നൽകിയും ഘടകത്തിന്റെ താപ വികാസം അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യമായ മെക്കാനിക്കൽ ഫിറ്റ് നേടേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് അതിനു നാം ടോളറൻസ് നൽകേണ്ടതുണ്ട് അതിനാൽ ഈ ടോളറൻസ് നഷ്ടപ്പെട്ട ചലനത്തിനും കാരണമാകുന്നു ഡൈമൻഷണൽ ടോളറൻസ് കാരണം നഷ്ടപ്പെട്ട ചലനത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിന് ടോളറൻസ് പരിധി കഴിയുന്നത്ര കുറഞ്ഞ നിലയിൽ നിലനിർത്തേണ്ടതുണ്ട് 40 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 5 40 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 3 40 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 ടോളറൻസ് ലെവൽ കഴിയുന്നത്ര കുറഞ്ഞത് നിലനിർത്തണം അതായത് നഷ്ടപ്പെട്ട ചലനം കുറയുന്ന തരത്തിൽ ശരി ടോളറൻസ് ലെവൽ ചെറുതായി ചെറുതായിവരുമ്പോൾ ചെലവ് കൂടുതലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉൾപ്പെടുന്ന പ്രക്രിയകളുടെ എണ്ണം ഉയർന്നതാണ് എന്നാൽ ടോളറൻസ് വളരെ ഉദാരമാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിറ്റ് fit ചേർച്ച ലഭിക്കുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ പ്രതികരണമായി മാറുകയും ധാരാളം ചലനനഷ്ടങ്ങളുണ്ടാകുകയും ചെയ്യുന്നു ഈ ഇന്റർമീഡിയറ്റ് പരിഷ്ക്കരണത്തിൽ താപനില വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു താപനില ഉയരുമ്പോൾ സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ തുടങ്ങുന്നു ഉദാഹരണത്തിന് കേബിളിന്റെയും കോയിലിന്റെയും താപ വികാസം ഉണ്ടാകാം അതിനാൽ ഇത് നിങ്ങൾക്ക് മറ്റൊരു കാരണം നൽകുന്നു താപനില വ്യതിയാനം അളക്കുന്ന സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതിനാൽ അളവിലെ താപനില വ്യതിയാനവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ അളവെടുക്കൽ എന്ന ആശയം പൂർണ്ണമായും നേടാനായില്ല ഇലാസ്റ്റിക് ഇലക്ട്രിക്കൽ എന്നീ ഭൌതിക സവിശേഷതകൾ താപനില വ്യതിയാനത്തെ ആശ്രയിച്ചിരിക്കുന്നു നീളം കൂടുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വൈദ്യുത പ്രവാഹം അതിലൂടെ കടന്നുപോകുമ്പോൾ തത്ഫലമായി ഉണ്ടാകുന്ന താപനില മൂലം അത് സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു വൈദ്യുത പ്രതികരണം ലഭിക്കുന്നു അത് 0 ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ സ്കെയിൽ എന്നറിയപ്പെടുന്ന ഒരു വ്യതിയാനത്തിന് കാരണമാകുന്നു ഇൻപുട്ട് ഇല്ലാത്ത അവസ്ഥയിൽ ഔട്ട്പുട്ടിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ് സ്കെയിൽ പിശക് അതിനർത്ഥം ഡ്രിഫ്റ്റ് സംഭവിക്കുമ്പോൾ ഉദാഹരണത്തിന് താപനില ഡ്രിഫ്റ്റ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട് താപനില 0 ആയിരിക്കുമ്പോൾ ഡ്രിഫ്റ്റ് വോൾട്ടേജ് താപനില ഉയർന്നാൽ 50 ഡിഗ്രി സെൽഷ്യസ് ഡ്രിഫ്റ്റ് വോൾട്ടേജ് ഇവിടെ പോകാമെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഒരു ഡ്രിഫ്റ്റ് ഉണ്ട് ഇത് 5 ആയിരിക്കാം ഇത് 0 വോൾട്ട് ഇത് 5 വോൾട്ട് ശരി ഇത് 0 ഡ്രിഫ്റ്റാണ് പ്രധാനമായും താപനില വ്യതിയാനത്തെ ആശ്രയിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇലാസ്റ്റിക് ഡീവിയേഷൻ കണ്ടു ബാക്ക്ലാഷ് ഡീവിയേഷൻ കണ്ടു ഡ്രിഫ്റ്റിനായി താപനില അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കാണുന്നു അടുത്തതായി നമ്മൾ ഇന്റർമീഡിയറ്റ് മോഡിഫിക്കേഷൻ ഉപകരണങ്ങളുടെ ഗുണങ്ങൾ കാണാൻ തുടങ്ങും ആദ്യത്തെ പ്രധാന നേട്ടം ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അറ്റെന്വഷൻ ആംപ്ലിഫിക്കേഷൻ എന്നാൽ വർദ്ധിച്ചു അറ്റെന്വഷൻ കുറയുന്നു ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അറ്റെന്വഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും മെക്കാനിക്കൽ സിസ്റ്റങ്ങളിൽ എളുപ്പത്തിൽ സാധ്യമല്ലാത്ത പവർ ആംപ്ലിഫയറുകൾ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിച്ച ഔട്ട്പുട്ട് ലഭിക്കും തീർച്ചയായും അവിടെ നിങ്ങൾക്ക് ലിവർ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഗിയറുകൾ ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾക്ക് വലുതാക്കാനും കഴിയും എന്നാൽ എല്ലായ്പ്പോഴും തേയ്മാനം മൂലമുള്ള നഷ്ടം അവിടെയുണ്ട് ഇവിടെ നിങ്ങൾക്ക് സിഗ്നൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പവർ ആംപ്ലിഫയറുകൾ ഉപയോഗിക്കാൻ കഴിയും ഇന്റർമീഡിയറ്റ് മോഡിഫിക്കേഷൻ ഉപകരണങ്ങളിൽ പിണ്ഡത്തിന്റെ നിഷ്ക്രിയത്വത്തിന്റെയും സംഘർഷത്തിന്റെയും പ്രഭാവം ഒരു പരിധി വരെ കുറയ്ക്കുന്നു മാത്രമല്ല ഏത് അളവിലും ഔട്ട്പുട്ട് പവർ നൽകാനും കഴിയും അതിനാൽ ഇലക്ട്രോണിക് സർക്യൂട്ട് വ്യത്യാസപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് 10 മടങ്ങ് 100 തവണ 1000 തവണ ആയിരിക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും തീർച്ചയായും നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത് തുടരുമ്പോൾ സിഗ്നൽ ടു നോയ്സ് അനുപാതം എന്ന് വിളിക്കുന്ന ഒരു ഘടകവും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉയർന്ന തോതിൽ പോകുമ്പോൾ നോയ്സ് കുറയ്ക്കേണ്ടതുണ്ട് റെക്കോർഡിംഗിന്റെ വിദൂര സൂചന സാധ്യമാണ് വിദൂര ടെലിമെട്രിയും നിയന്ത്രണവും എയ്റോസ്പെയ്സിന്റെയും ആർ ഡി യുടെയും പ്രധാന ഘടകങ്ങളാണ് അതിനർത്ഥം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സിഗ്നലുകൾ വയർലെസ് ആശയവിനിമയം നടത്താൻ കഴിയുന്ന സെൻസിംഗ് സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് സ്വീകരിച്ച് പ്രോസസ്സിംഗ് ആരംഭിക്കാൻ കഴിയും ട്രാൻസ്ഡ്യൂസറുകൾ സാധാരണയായി ചെറുതാക്കലിന് വിധേയരാകുന്നു പ്രത്യേകിച്ചും ഇന്റർമീഡിയറ്റ് പരിഷ്കരിച്ച ഉപകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സംയോജിത സർക്യൂട്ടുകളിൽ അടുത്തതായി നമ്മൾ ലളിതമായ കറന്റ് സെൻസിറ്റീവ് സർക്യൂട്ടുകളിലേക്ക് നീങ്ങും അടുത്തത് ബാലസ്റ്റ് സർക്യൂട്ട് ആയിരിക്കും അതിനാൽ ഇവിടെ നമുക്ക് ei ഉണ്ടായിരിക്കും ഇത് നമ്മൾ നൽകുന്ന വോൾട്ടേജാണ് അടിസ്ഥാനപരമായി ഇതൊരു ചെറിയ വ്യതിയാനമാണ് ഇവിടെ സർക്യൂട്ടിലെ ട്രാൻസ്ഫ്യൂസറിലുടനീളം ഒരു വോൾട്ടേജ് സെൻസിറ്റീവ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നു ലളിതമായ സർക്യൂട്ടിലേക്കുള്ള ചെറിയ വ്യതിയാനമാണിത് ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ നിലവിലെ വ്യതിയാനം നേടാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ Rb യുടെ അഭാവത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ആദ്യം എന്താണ് എഴുതുന്നത് Ra Rb Rt അതുവഴി നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും Rb ബലാസ്റ്റ് റെസിസ്റ്ററും Rt ട്രാൻസ്ഫ്യൂസർ റെസിസ്റ്റൻസുമാണ് അതിനാൽ ഓമിന്റെ നിയമം പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ലഭിക്കും ieiRbkRt ഇവിടെ കെ ഘടകസംഖ്യയാണ് അവസാനം നമ്മൾ എന്താണ് പറയുന്നത് ആവശ്യമായ സംവേദനക്ഷമതയ്ക്ക് Rb ക്ക് ഒരു ഒപ്റ്റിമൽ മൂല്യമുണ്ടെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നു ഇത് ഒരു പ്രധാന സമവാക്യമാണ് അവിടെ നിങ്ങൾ സംവേദനക്ഷമത വിശകലനവും Rb യുടെ ഒപ്റ്റിമൽ മൂല്യവും മനസ്സിലാക്കണം ഈ ഡെറിവേറ്റീവ് ഇനിപ്പറയുന്ന രണ്ട് നിബന്ധനകൾക്ക് 0 ആയിരിക്കും ഒന്നുകിൽ ബാലസ്റ്റ് റെസിസ്റ്റൻസിനു ഏറ്റവും കുറഞ്ഞ സംവേദനക്ഷമത ഉണ്ടാകുമ്പോൾ Rb അനന്തം ആകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ സംവേദനക്ഷമത ലഭിക്കുന്ന ബാലസ്റ്റ് Rb kRt ശരി ഇത്രയും പറഞ്ഞത് ബാലസ്റ്റ് സർക്യൂട്ടിനെക്കുറിച്ചാണ് വളരെയധികം നന്ദി